നമസ്തേ കഴിഞ്ഞ മൂന്നു സെഷനുകളിൽ നാം വളരെയധികം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സ്കളുടെഅപഗ്രഥനവും വിശകലനവും സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു നമ്മൾ വളരെയധികം Ratios കളെ പറ്റിയുള്ള ചർച്ച നടത്തിക്കഴിഞ്ഞു പ്രധാനപ്പെട്ട എല്ലാ Ratios കളെപറ്റിയുള്ളചർച്ച നടത്തിക്കഴിഞ്ഞു ഇനി നമുക്ക്കമ്പനികളുടെ ഡാറ്റ എടുത്തിട്ടുള്ള വിശകലനം അപഗ്രഥനവും ചെയ്യാവുന്നതാണ് നമ്മൾ ഷിപ്പിംഗ് Corporation ഓഫ് ഇന്ത്യയെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ comparative Statementറ്റും common size statement റ്റുംകണ്ടു പിടിക്കാൻ പോകുന്നു അത് നാം ഒന്നാമത്തെ നമുക്കു സെഷനിൽ ചർച്ച നടത്തിയ horizontal and vertical analysis ആണ് ഇത്Shipping കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ Profit and Loss AC ആണ് ന്ന്ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് കമ്പനിയെ പറ്റി അറിയാം ഇതൊരു ഗവൺമെൻറ് കമ്പനി ആണ് കൂടാതെ ഇത് ഒരു പബ്ലിക് Sector Undertaking ആണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഷിപ്പിംഗ് കമ്പനി ആണ് മാർച്ച് 16 മാർച്ച് 17 എന്നീ തീയതികളിലെ PL AC ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക കമ്പനി സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമല്ല സംഭവിച്ചത് Revenue from operation 4000 നിന്ന് 3400 ആയി ചുരുങ്ങി വ്യത്യസ്തമായുള്ള ചെലവുകൾ നോക്കുക ആദ്യം നമുക്ക് horizontal analysis ചെയ്യാവുന്നതാണ് Horizontal analysisചെയ്യുമ്പോൾ നാം രണ്ടു വർഷത്തെ ഡാറ്റ Compare ചെയ്യുന്നു ആദ്യം മാർച്ച് 17 data നോക്കാം അതിനുശേഷം കഴിഞ്ഞ വർഷത്തെ മാർച്ച് 16 data നോക്കുക തമ്മിൽ താരതമ്യം ചെയ്തുനോക്കാം ഇങ്ങനെ വരയ്ക്കുന്ന സ്റ്റേറ്റ്മെൻറ് ആണ് comparative statement ആ സ്റ്റേറ്റ്മെൻറ് ഉണ്ടാക്കാൻ എളുപ്പമാണ് ഒരു തലക്കെട്ട് കൊടുക്കുക അത് Comparative Statement എന്നാണ് കൊടുക്കേണ്ടത് അതിനുശേഷം നമ്മുടെ രണ്ടു കൊല്ലത്തെ ഡാറ്റ താരതമ്യം ചെയ്യുക വ്യത്യാസം കണ്ടുപിടിക്കുക വ്യത്യാസമുണ്ടെങ്കിൽ decrease അല്ലെങ്കിൽ incerase ആണ് ഒന്നാമത്തെ ഫിഗർ Increase ആണെന്നാണ് പ്രതീക്ഷിക്കുക പക്ഷേ ഇവിടെ സംഭവിച്ചത് അങ്ങനെയല്ല Revenue from Operations 4078 അൽ നിന്ന് 3407 ആയി അതിനാൽ 671 Decrease ആണ് ഉണ്ടായത് ഈ Absolute figures റിലേറ്റീവ് Changes സംബന്ധിച്ച് ഒന്നും കാണിക്കുന്നില്ല അതുകൊണ്ട് നാം ശതമാനം കണ്ടുപിടിക്കണം Base അടിസ്ഥാനപ്പെടുത്തിയാണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ base year അവസാനവർഷമാണ് അപ്പോൾ ഉണ്ടായ ശതമാന വ്യത്യാസം 0 16 ആണ് അതിൻറെ അർത്ഥം Revenue എന്നതിൽ16 decrease ഉണ്ടായി ഓരോ Numbers എടുത്തു കണക്കുകൂട്ടുന്നത് എളുപ്പമാണ് ഒരു കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ കണക്കു കൂട്ടാൻ സാധിക്കും ഇവിടെ Revenue from operations ഒരേ Number തന്നെയാണ് നമുക്ക് നോക്കാം രണ്ടിലും 16 Decrease ഉണ്ടായി അടുത്ത ഇനം Non operating revenueആണ് അതിലും16 വ്യത്യാസമുണ്ടായിരുന്നു യാദൃശ്ചികമായി ആയിട്ടാണ് രണ്ടും ഒരേപോലെ വന്നിരിക്കുന്നത് അവിടെ സംഭവിച്ചത് 16 Increase ആണ് മൂന്നാമത്തെ സംഖ്യ other operating revenue 16 ശതമാനം കൂടി യാദൃശ്ചികമായി ആയിട്ടാണ് രണ്ടും ഒരേപോലെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ടോട്ടൽ Operating Revenue എന്നതിൽ16 Decrease ഉണ്ടായി പ്രധാനപ്പെട്ട itemRevenue from operations ആണ് Other Income എന്നതിൽ19 crores വ്യത്യാസം ഉണ്ടായി അത് 12 ശതമാനത്തോളം Decrease ആണ് വീണ്ടുംtotal revenue എന്നതിൽ 16Decrease ഉണ്ടായി ഓപ്പറേറ്റിങ് ആൻഡ്Direct expense 2339 നിന്ന് 2149 ആയി അവിടെ 8 decrease ഉണ്ടായി അത് ചെറിയ താഴ്ചയാണ് Employee benefits എന്നത് ഏകദേശം ഒരുപോലെയാണ് സാലറിയിൽഎന്നതിൽ വലിയ മാറ്റം വന്നിട്ടില്ല ഒരുപോലെയാണ് Finance Cost എന്നതിൽ വലിയ മാറ്റം വന്നിട്ടില്ല ഒരുപോലെയാണ് Depreciation ഏകദേശം ഒരുപോലെയാണ് Other എക്സ്പെൻസ്എന്നതിൽ ചെറിയ decrease ഉണ്ടായി ടോട്ടൽ expenses ഏകദേശം ഒരുപോലെയാണ് അതിൽ 0 11 decrease ഉണ്ടായി നിങ്ങൾ ഷിപ്പിംഗ് Company നെ പറ്റി ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും രണ്ടു വർഷവും കപ്പലുകളുടെ എണ്ണം ഒരുപോലെ ആയിരിക്കും ജീവനക്കാരുടെഎണ്ണംഒരുപോലെ ആയിരിക്കും അതുകൊണ്ട് Depreciation കോസ്റ്റ് Maintennace Costസാലറി കോസ്റ്റ് ഓപ്പറേറ്റിങ് expenses എന്നിവ ഏകദേശം ഒരുപോലെ ആയിരിക്കും കാര്യമായ താഴ്ച ഉണ്ടായത് Revenue ൽആണ് ആ താഴ്ച Profit ലുംപ്രതിഫലിക്കും Profit എന്നതിൽ 244 Decrease ഉണ്ടായി ഏകദേശം 58 ആണ് Profit 421 എന്നതിൽനിന്ന് 177 ആയി Absolute എമൌണ്ട് നോക്കുകയാണെങ്കിൽ 600 core രൂപയുടെ Revenue loss ഉണ്ടായി അതിനുപകരം440 കോടി രൂപയുടെ ചെലവുകളിൽ കമ്മി വന്നു പക്ഷേ profit 244 കോടി കണ്ട് കുറഞ്ഞു ഏകദേശം50 ശതമാനത്തിലധികം Profit കുറഞ്ഞു Other എക്സ്പെൻസ് എന്നത് 240 കോടിയുടെ കമ്മി വന്നു ഇവിടെ കറണ്ട് ടാക്സിൽ കാര്യമായ വ്യത്യാസം വന്നിട്ടില്ല Profit ൽവ്യത്യാസം ഉണ്ടാവുമ്പോൾCurrent ടാക്സ് വ്യത്യാസമുണ്ടാവും പക്ഷേ ഇവിടെ പ്രോഫിറ്റ് താഴേക്ക് വന്നിട്ടും ഇൻകംടാക്സ്എന്നതിൽ കാര്യമായ വ്യത്യാസം വന്നിട്ടില്ല കാരണം ഷിപ്പിംഗ് ഒരു പ്രത്യേകതരം ഇൻഡസ്ട്രിയാണ് ആ ഇൻഡസ്ട്രിയിൽFreight മേലെയാണ് ടാക്സ് വരുന്നത് അതുകൊണ്ടാണ് ടാക്സിൽ കാര്യമായ വ്യത്യാസം വരാത്തത് ഇതുപോലെ ഈ കമ്പനിക്ക് MAT CREDIT ലഭിച്ചിട്ടുണ്ട് എന്താണ് MAT Minimum Alternate Tax എന്നതാണ് MAT കഴിഞ്ഞ വർഷങ്ങളിൽ കമ്പനി കൂടുതൽ MAT കൊടുത്തിട്ടുണ്ട് അതിൻറെ ക്രെഡിറ്റ് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നു കഴിഞ്ഞകൊല്ലം 24 കോടി കിട്ടി ഈ കൊല്ലം 11 കോടി കാര്യമായ വ്യത്യാസമില്ല Defeered Tax ഒരു ചെറിയ Amount യാണ് Total tax expenses ഒരുപോലെ തന്നെയാണ് രണ്ട് കൊല്ലവും കാര്യമായ വ്യത്യാസമില്ല ആയതിനാൽ overall profit after tax 375 കോടിയിൽനിന്ന്135 കോടി ആയി കുറഞ്ഞു ഏകദേശം65 decrease ആണ് സംഭവിച്ചത് അടുത്ത item മായി ഒരു ചെറിയ prior period itemഉണ്ട് എന്താണ് prior period item ആകെ കൊല്ലങ്ങളിൽ ഉണ്ടായഐറ്റംസ് ആണിത് Additional വിവരങ്ങൾ ലഭിച്ച അടിസ്ഥാനത്തിൽ നാം ചില Rectifications ചെയ്യണം Extraordinary itemഒന്നും തന്നെ ഇല്ല അങ്ങനെ final profit from continuing operations 241 കോടി കണ്ടു പറഞ്ഞു ഇതിനാൽ 64 decrease ഉണ്ടായി ഇപ്പോൾ കിട്ടിയതാണ് profit for the period Comparative Analysis വളരെ എളുപ്പം ആണ് കഴിഞ്ഞ കൊല്ലത്തെ figures നോക്കിയിട്ട് ഇക്കൊല്ലം ഉണ്ടായ figures മായിതാരതമ്യം ചെയ്യുക അബ്സല്യൂട്ട് Figures percentages എന്നിവതാരതമ്യം ചെയ്യണം Comparative Balance sheet ഉണ്ടാക്കാം ഓരോരോ വ്യത്യാസം കണ്ടുപിടിക്കുക വ്യത്യാസംനമുക്ക്Changeഎന്നുവിളിക്കാവുന്നതാണ് അതുപോലെ നമുക്ക് ശതമാനം വ്യത്യാസവും കണ്ടുപിടിക്കാവുന്നതാണ് ഓരോitemത്തിൻറെയുംവ്യത്യാസവും ശതമാനം വ്യത്യാസവും കണ്ടുപിടിക്കുക Current Year figure Deduct Last year figure കണ്ടുപിടിക്കണം എന്നിട്ട് ആ വ്യത്യാസം last year ൻറെ ശതമാനമായി എഴുതണം Equity Share Capital ൽ വ്യത്യാസം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് Zero Change ആണ് Reserves Surplus എന്നതിൽ നേരിയ ഉണ്ടായിരിക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് Prior period items ഒന്നു ഉണ്ടായിരുന്നു കമ്പനിയുടെ profit താഴേക്കു വന്നു കമ്പനിdividend pay ചെയ്തു ആയതുകൊണ്ടാണ് Reserves എന്നതിൽ നേരിയ താഴ്ച ഉണ്ടായത് 461 crore യാണ് കമ്പനിയുടെ ക്യാപിറ്റൽ കമ്പനിക്ക് വളരെയധികം Reseves ഉണ്ട് 6444 crore യാണ് കമ്പനിയുടെ Reserves ഈ വർഷം 6400 croreയായി നേരിയ താഴ്ചയാണ് RESERVES എന്നതിൽ സംഭവിച്ചിരിക്കുന്നത് Total share holders ഒരു ശതമാനം താഴോട്ട് വന്നു long term borrowingsനോക്കുക അതിൽ കാര്യമായി വ്യത്യാസമുണ്ടായി 4598 CRORE എന്ന തുകയിൽനിന്ന് 3077 Crore ആയി ആയതുകൊണ്ട് 1520 കോടിയുടെ decrease ഉണ്ടായി 33decrease ഉണ്ടായി എന്തു കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് Loan ഡ്യൂ ഡേറ്റ് ആയിക്കാണും Loan തിരിച്ചടച്ച് ഇരിക്കാൻ സാധ്യത ഉണ്ട് മറ്റൊരു സാധ്യത വളരെയധികം interest ഉള്ള ലോൺ ആയിരിക്കും അതുകൊണ്ട് ലോൺ തിരിച്ചടയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു Deferred tax liability പൂജ്യത്തിൽ നിന്ന്343 crore യായി വളരെ വലിയ increase ആണ് അതുകൊണ്ട്ശതമാനം കണ്ടുപിടിക്കാൻ പറ്റില്ല Other long term liabilities വളരെ ചെറുതാണ് Long term provisions താഴേക്ക് വന്നു Total noncurrent liabilityവളരെതാഴേക്ക് വന്നു 26താഴേക്ക് വന്നു Long term borrowings repay ചെയ്തു അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് current liabilities നോക്കുക short term borrowing പൂജ്യത്തിൽ നിന്ന് 974 crore ആയി long term borrowings ൻറെ ഒരു portion short term borrowing ആയിക്കാണും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഒരുപക്ഷേRepayment അവസാനവർഷം ആയിരിക്കാം 10 year duration യുള്ള debenture issue ചെയ്തു എന്ന് വിചാരിക്കുക ഒമ്പതു വർഷം കഴിഞ്ഞിരിക്കുന്നു ഇത് അവസാന വർഷമാണ് ഈ വർഷമാണ് Reപെയ്മെൻറ് അവസാനിക്കുന്നത് അതുകൊണ്ടാണ് long term borrowings എന്നതിൽ1520 crore രൂപയുടെ decrease ഉണ്ടായത് അതിൽ974 crore രൂപ short term borrowing ആയി ഒരു വർഷത്തിലധികം കാലാവധി ഉള്ള വായ്പ എടുത്താൽ അതാണ് long term ഞങ്ങൾ എട്ടു വർഷത്തേക്ക് ലോണെടുത്തു എന്ന് വിചാരിക്കുക 7 കൊല്ലംഅത് long term കാണിക്കും എട്ടാമത്തെ കൊല്ലം short trem കാണിക്കണം ഈ Current year due ആവുന്ന loan short term borrowings എന്നാണ് കാണിക്കുക Trade payables എന്നതിൽ significant ആയിട്ടുള്ള വ്യത്യാസം ഉണ്ടായി 989 crore നിന്ന് 2900 crore യായി ഏകദേശം 200 ശതമാനം വ്യത്യാസമുണ്ടായി 1000 crore എന്ന സംഖ്യയിൽ നിന്ന് ഏകദേശം 3000 കോടി എന്ന സംഖ്യയായി എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു കമ്പനിയുടെ കയ്യിൽ പണം ഇല്ലാതിരിക്കാം Trade payable അതായിരിക്കാം എന്തായാലും അന്വേഷിക്കേണ്ട ഒരു കാര്യമാണിത് Cash Flow Statement നോക്കിയാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും Current payables വളരെയധികം താഴേയ്ക്കു വന്നു ഒരുപക്ഷേ കറണ്ട് Payble Trade payables യി മാറ്റപ്പെട്ടിരിക്കുന്നു കൂടുതൽ പഠിക്കേണ്ടത് ആവശ്യമാണ് Other Current payables വളരെയധികം താഴേയ്ക്കു വന്നു ഏകദേശം 90 decrease ഉണ്ടായി Short term provisions 86 താഴേയ്ക്കു വന്നു മൊത്തം Current Liabilities ൽ വർധനവുണ്ടായി 1242 crore രൂപയുടെ വർധനവാണ്Total Current Liabilities എന്നതിൽ ഉണ്ടായത് കഴിഞ്ഞ സെക്ഷനിൽ Current ratio എന്നതിനെ പറ്റി ചർച്ച നടത്തിയിരുന്നു കറൻറ് ratio കാൽക്കുലേറ്റ് ചെയ്താൽ ആ ratio താഴേക്കു വന്നുഎന്ന് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ Assets നോക്കുക Assets എന്നതിൽകാര്യമായ വ്യത്യാസമില്ല വലിയ കപ്പൽ ഒന്നും വാങ്ങിച്ചിട്ടില്ല 2 ശതമാനമാണ് decrease ഉണ്ടായത് അങ്ങനെ സംഭവിച്ചത് depreciation കൊണ്ടാണ് Intangible Assets എന്നതിൽകാര്യമായ വ്യത്യാസമില്ല വളരെ ചെറിയവ്യത്യാസ മാണ് work in progress എന്നതിൽ ഉള്ളത് കാര്യമായ Assets ഇല്ല ടോട്ടൽ Fixed assets ഒരു ശതമാനം താഴ്ന്നു Noncurrent investments സ്വല്പം കൂടി എന്നാൽ അത്പ്രധാനപ്പെട്ട amount അല്ല കണക്കിൽ 175 ശതമാനം കൂടിയെങ്കിലും Long term loans and advances താഴേക്കു വന്നു total noncurrent assets എന്നത് 3വ്യത്യാസമുണ്ടായി കറൻറ് assets നോക്കുക കറൻറ് investments 37 കോടിയായിരുന്നു അത് വിറ്റു അതുകൊണ്ട് ഈ വർഷം പൂജ്യമായി ഇതൊരു ഷിപ്പിംഗ് കമ്പനി ആണ് അതുകൊണ്ട് Inventory അധികമില്ല Inventory എന്നതിൽ നേരിയ increase ഉണ്ടായി Trade receivables എന്നതിൽ നേരിയ decrease ഉണ്ടായി Cash Cash equivalents ഏകദേശം ഒരേ പോലെയാണ് അത് 1200 crore എന്ന സംഖ്യയിൽ നിന്ന് 1300 crore എന്ന സംഖ്യയിൽഎത്തി Short term loans and advances ൽ നേരിയ വർധന ഉണ്ടായി ശതമാനക്കണക്കിൽ114 ശതമാനം കൂടി Total Current Assets ൽ323 കോടി രൂപയുടെ വർദ്ധനവുണ്ടായി 13 Increase ആണ്Current Assets എന്നതിൽ ഉണ്ടായത് ഇതുവരെdiscussion നടത്തിയത് comparative balance sheet ആണ് എനി Current Ratio Calculate ചെയ്യണം Current Assets Current Liabilitiesആണ്Current Ratio കണ്ടുപിടിക്കാനുള്ള ഫോർമുല total current assets 2727 കോടിയാണ് total current liability ഏകദേശം4000കോടിയാണ് എന്നാൽ Current Ratio 0 67 ആണ് കഴിഞ്ഞവർഷം 0 84 ആണ് Current Liabilities എന്നതിൽ44 ശതമാനം വർധനവുണ്ടായി അതുകൊണ്ടാണ് Current Ratio താഴുന്നത് നമുക്ക് Cash Flow Statement പരിശോധിക്കാം March 16March 17 എന്നീതീയതികളിലെക്യാഷ് Flow Statement നോക്കുക Current year തുകയിൽനിന്ന് കഴിഞ്ഞ കൊല്ലത്തെ തുക മൈനസ് ചെയ്യണം Net Profit ൽ വ്യത്യാസമുണ്ടായി 60 decrease ആണ് net profit before tax എന്നതിൽ ഉണ്ടായത് Cash from operating activities എന്നതിൽ എന്തു വ്യത്യാസം ഉണ്ടായി 1327 crore എന്ന സംഖ്യയിൽ നിന്ന് 682 കോടി എന്നസംഖ്യയായി Cash generated from operating activities എന്നതിൽ കാര്യമായതാഴ്ച ഉണ്ടായി Cash generated from investing activities 202കോടിയിൽനിന്ന് 85 കോടിയായി cash from financing activity 1000 എന്ന സംഖ്യയിൽ നിന്ന് 500 കോടി എന്നസംഖ്യയായി cash and cash equivalent എന്നതിൽകാര്യമായ വ്യത്യാസമില്ല opening and closing cash balanceഎന്നതിൽ വ്യത്യാസമുണ്ട് Horizontal analysis ആണ് ഇപ്പോൾ ചെയ്തത് ഈ കമ്പനി വച്ചിട്ട് Vertical Analysis ചെയ്യാൻ പറ്റും Horizontal analysis എന്നതിൽ 2 കൊല്ലത്തെ തുക തമ്മിൽ താരതമ്യം ചെയ്തു നമ്മൾ absolute values Compare ചെയ്തു അതിനുശേഷംശതമാനം Compare ചെയ്തു ഇതൊരു ലളിതമായ ജോലിയാണ് നമസ്തേ താങ്ക്യൂ